ഇപ്പോൾ ഒരു ഡയോഡിന്റെ സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ മോഡൽ ഞങ്ങൾ പരിഗണിക്കും അത് ഡയോഡ് ഒരു നിശ്ചിത പ്രവർത്തന പോയിന്റിലാണെന്ന് ആദ്യം നമുക്ക് അനുമാനിക്കാം കൂടാതെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഓപ്പറേറ്റിംഗ് പോയിന്റ് നിങ്ങൾ കണക്കാക്കുന്ന ആദ്യത്തെ പരിഹാരം ആണെന്ന് പറയാം കൂടാതെ കൈകൊണ്ട് കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ VD 0 7 V ആണെന്നും ID എന്നത് സർക്യൂട്ട് വിശകലനത്തിൽ നിന്ന് ലഭിച്ചതായും ഞങ്ങൾ അനുമാനിക്കും നിങ്ങൾ VD 0 7 V ആയി സജ്ജീകരിച്ചുകഴിഞ്ഞാൽ അത് അടിസ്ഥാനപരമായി ഒരു അനുയോജ്യമായ വോൾട്ടേജ് ഉറവിടം പോലെയാണ് കറന്റ് ഉണ്ടെങ്കിൽ സർക്യൂട്ട് വിശകലനം വളരെ എളുപ്പമാണ് നിങ്ങൾ രേഖീയമല്ലാത്ത സമവാക്യങ്ങളൊന്നും പരിഹരിക്കേണ്ടതില്ല ഇപ്പോൾ ഏത് കാരണത്താലും ഇതിലുടനീളമുള്ള വോൾട്ടേജ് മാറുകയും അതിലൂടെയുള്ള കറന്റും മാറുകയും ചെയ്യുന്ന സാഹചര്യം പരിഗണിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ മൂല്യങ്ങളെ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ ഇൻക്രിമെന്റായി പ്രതിനിധീകരിക്കാം അതിനാൽ ID VD പ്രവർത്തന പോയിന്റിന് മുകളിലുള്ള വർദ്ധനവാണ് ഇപ്പോൾ ID യും VD യും തമ്മിലുള്ള ബന്ധം കാണിക്കുന്ന ഒരു പുതിയ ഘടകം നിർവചിക്കാമെന്നും ആ ഘടകം ഒരു റെസിസ്റ്ററാണെന്നും ഞങ്ങൾക്കറിയാം ഇതാണ് ID ഇതാണ് VD ഇത് കുറച്ച് പ്രതിരോധമാണ് ഇത് സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്നു ഈ rd മൂല്യം എന്താണ് ഇത് ഓപ്പറേറ്റിംഗ് പോയിന്റിലെ ഡയോഡിന്റെ സ്ലോപ്പിന്റെ റെസിപ്രോക്കൽ ആണ് ഇവിടെ ഉപരിതലം കറന്റ് അടിസ്ഥാനപരമായി വോൾട്ടേജിന്റെ പ്രവർത്തന ഫലമായി നിലവിലുള്ളതാണ് അതായത് സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് പ്രവർത്തന പോയിന്റിലെ ഈ സ്വഭാവത്തിന്റെ ചരിവിന്റെ വിപരീതമാണ് സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ കണ്ടക്ടൻസും പ്രവർത്തന പോയിന്റിൽ ഇതിന്റെ ചരിവാണ് ഇപ്പോൾ നിർവചനം അനുസരിച്ച് ഒരു സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റുകൾ തമ്മിലുള്ള ബന്ധം ചിത്രീകരിക്കുന്ന ഘടകം ഒരു ലീനിയർ മൂലകമാണ് കൂടാതെ ടു ടെർമിനൽ നോൺലീനിയർ മൂലകത്തിന്റെ കാര്യത്തിൽ ഇത് ഒരു റെസിസ്റ്ററാണ് ടെയ്ലർ സീരീസിലെ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റുമുള്ള നോൺ ലീനിയാരിറ്റി വികസിപ്പിക്കുകയും ഉയർന്ന ഓർഡർ നിബന്ധനകൾ അവഗണിക്കുകയും ചെയ്യുന്നതിനാലാണിത് അതായത് ഇൻക്രിമെന്റൽ വോൾട്ടേജിലെ ഇൻക്രിമെന്റൽ കറന്റിന്റെ ലീനിയർ ആശ്രിതത്വം മാത്രമേ ഞങ്ങൾ നിലനിർത്തുന്നുള്ളൂ അതിനാൽ ഇത് നിർവചനം അനുസരിച്ച് ലീനിയർ ആണ് ഇത് ഒരു ഡയോഡിന് മാത്രമല്ല ഏതൊരു നോൺലീനിയർ എലമെന്റിനും ശരിയാണ് നിങ്ങൾക്ക് ആരംഭിക്കാൻ ഒരു ലീനിയർ എലമെന്റ് ഉണ്ടെങ്കിൽ IR എന്നത് ചില ഫംഗ്ഷൻ h ആണെന്നും പറയാം തീർച്ചയായും h തന്നെ ഇപ്പോൾ ഒരു നേർരേഖയാണ് IR എന്നത് VRR ആണെന്ന് നമുക്കറിയാം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇൻക്രിമെന്റൽ ചാലകത gR പ്രവർത്തന പോയിന്റിൽ ഈ h ന്റെ ചരിവായിരിക്കും കൂടാതെ ചരിവ് അടിസ്ഥാനപരമായി എല്ലായിടത്തും 1R ആണ് ഇത് റെസിസ്റ്ററിന്റെ ചാലകതയ്ക്ക് തുല്യമാണ് അതുപോലെ ഒരു റെസിസ്റ്ററിന്റെ സ്മാൾ സിഗ്നൽ പ്രതിരോധം പ്രതിരോധത്തിന് തുല്യമാണ് ഇത് വളരെ ആശ്ചര്യകരമല്ല സ്മാൾ സിഗ്നൽ ചാലകത ഓപ്പറേറ്റിംഗ് പോയിന്റിലെ I V കാരക്ടറിസ്റ്റിക്സിന്റെ ചരിവാണ് റെസിസ്റ്ററിന്റെ I V കാരക്ടറിസ്റ്റിക്സിന്റെ ചരിവ് എല്ലായിടത്തും 1R ആണ് അതിനാൽ ഒരു ലീനിയർ മൂലകത്തിന്റെ ചെറിയ സിഗ്നൽ ഇൻക്രിമെന്റൽ തത്തുല്യമായ ഘടകം തന്നെയാണ് അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ പദപ്രയോഗത്തിലൂടെയാണ് ഡയോഡ് സ്വഭാവം നൽകിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം VD Vt അല്ലെങ്കിൽ അടിസ്ഥാനപരമായി മുന്നോട്ടുള്ള ദിശയിൽ ഒരു ഗണ്യമായ കറന്റ് ഒഴുകുമ്പോൾ ഇത് IS eVdVt ആയി കണക്കാക്കാം അതിനാൽ ഈ സാഹചര്യത്തിൽ ഒരു ഡയോഡിന്റെ ഇൻക്രിമെന്റൽ കണ്ടക്ടൻസ് ഈ ഡെറിവേറ്റീവ് ആണ് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ കണക്കാക്കുന്നത് കൂടാതെ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ IS eVdVt കണക്കാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ ഈ അളവ് ഡയോഡിലെ ഫോർവേഡ് കറന്റിനുള്ള ഏകദേശ പദപ്രയോഗമല്ലാതെ മറ്റൊന്നുമല്ലെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഇത് ID0 അല്ലാതെ മറ്റൊന്നുമല്ല അതായത് ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് താപ വോൾട്ടേജ് Vt കൊണ്ട് ഹരിക്കുന്നു അതിനാൽ ഇത് ഒരു ഡയോഡിന്റെ വർദ്ധിച്ച ചാലകതയാണ് തീർച്ചയായും ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് Vt ID0 ആണ് ID0 എന്നത് 1mA ആയിരിക്കുമ്പോൾ അതായത് ഒരു ഡയോഡിലെ ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റ് 1mA ആയിരിക്കുമ്പോൾ ഞങ്ങൾ അതിനെ 1mA കറന്റിൽ ബയസ് ചെയ്യുന്ന ഡയോഡ് എന്ന് വിളിക്കുന്നു അപ്പോൾ gD 1mA ആണ് താപ വോൾട്ടേജിന്റെ ഏകദേശ മൂല്യം 25mV ആണ് അത് 40mS ആയി മാറുന്നു അതുപോലെ നിങ്ങൾ rD കണക്കാക്കിയാൽ അത് 25 Ω ആയി മാറുന്നു ഇതെല്ലാം തീർച്ചയായും ആ മുറിയിലെ താപനിലയാണ് Vt യുടെ മൂല്യവും ഏകദേശം കണക്കാക്കിയതായി ഓർക്കുക ഇത് ശരിക്കും 25 9 ആണ് പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇത് 25 ആണെന്നാണ് കൂടാതെ gD ഓപ്പറേറ്റിംഗ് പോയിന്റ് കറന്റുമായി നേരിട്ട് ആനുപാതികമാണെന്ന് അറിയുന്നത് ID0 10mA ആയിരിക്കുമ്പോൾ gD വർദ്ധിക്കുന്ന ചാലകത 400mS ആയിരിക്കുമെന്നും ഇൻക്രിമെന്റൽ റെസിസ്റ്റൻസ് 2 5 Ω ആയിരിക്കുമെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും അതിനാൽ ഇൻക്രിമെന്റൽ ചിത്രത്തിനായി നിങ്ങൾ ഈ മൂല്യത്തിന്റെ പ്രതിരോധം ഉപയോഗിച്ച് ഡയോഡിനെ മാറ്റിസ്ഥാപിക്കുന്നു ഇപ്പോൾ ഇത് എന്താണ് പ്രയോജനം അതിനാൽ ഞാൻ അതേ സർക്യൂട്ട് എടുക്കുമെന്ന് വീണ്ടും പറയാം ഈ സമയം VS എന്നത് സമയം മാറുന്ന ഉറവിടമാണെന്ന് ഞാൻ അനുമാനിക്കട്ടെ അത് 5 7 V 100 mV sinωt ആണ് ഈ സർക്യൂട്ടിലെ ഡയോഡിലെ വോൾട്ടേജും ഡയോഡിലൂടെയുള്ള കറന്റും കണ്ടെത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായും ഒരു സാധ്യത വീണ്ടും കൃത്യമായ വിശകലനം നടത്തുക എന്നതാണ് R IS അതായത് 5 7 V 100mV sinωt VD5 KΩs എന്നതിന് തുല്യമാണ് വലത് വശം 0 15 അത് IS മൂല്യമാണെന്ന് പറയാം സംഖ്യാപരമായി ഇത് വളരെ എളുപ്പത്തിൽ പരിഹരിക്കാനാകുമെന്ന് നിങ്ങൾക്ക് ഉടനടി കാണാൻ കഴിയും എന്നാൽ ഇത് കൈകൊണ്ട് കണക്കുകൂട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഒന്നാമതായി നമുക്ക് ഇവിടെ സമയം വ്യത്യാസപ്പെടുന്ന അളവ് ഉണ്ട് അതിനർത്ഥം നമ്മൾ വ്യത്യസ്ത സമയ പോയിന്റുകൾ തിരഞ്ഞെടുക്കുകയും അവയിൽ ഓരോന്നിനും ഇടത് വശം കണക്കാക്കുകയും വേണം അവയിൽ ഓരോന്നിനും നമുക്ക് ഒരു സമവാക്യം ലഭിക്കും അത് സംഖ്യാപരമായി പരിഹരിക്കേണ്ടതുണ്ട് അതായത് Sin തരംഗത്തിന്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ പോയിന്റുകൾ എടുക്കുന്നു ഓരോ പോയിന്റിലും ഈ നോൺലീനിയർ സമവാക്യം ഞങ്ങൾ പരിഹരിക്കുന്നു കൈകൊണ്ട് ഇത് സാധ്യമല്ല അതിനാൽ ഞങ്ങൾ ചെയ്യുന്നത് ഇനിപ്പറയുന്നതാണ് ആദ്യം നമ്മൾ ഈ സർക്യൂട്ട് പരിഹരിക്കുന്നു സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്നത് ഇതാണ് അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് പോയിന്റായി കണക്കാക്കുന്നത് നമ്മുടെ കാര്യമാണ് എന്നാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഈ 5 7 V യുടെ നിശ്ചിത ഭാഗം ഓപ്പറേറ്റിംഗ് പോയിന്റായി കണക്കാക്കുകയും ഇത് പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കുമ്പോൾ മുന്നോട്ട് ദിശയിൽ കറന്റ് ഒഴുകുമ്പോൾ ഡയോഡിന് 0 7 V വോൾട്ടേജ് ഉണ്ട് അതിനാൽ ഞങ്ങൾ ഇത് മുമ്പ് പരിഹരിച്ചു അതിനാൽ ഞങ്ങൾ ഡയോഡ് മോഡൽ എടുക്കും പരിഹാരം കാണിക്കുക ഇവിടെ കറന്റ് 1mA ആണ് ഇവിടെയുള്ള വോൾട്ടേജ് 0 7 V ആണ് ഇപ്പോൾ ഇവിടെയുള്ള ഇൻക്രിമെന്റൽ ഭാഗം 5 7 V ന് മുകളിലുള്ള അധികഭാഗം സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ നിന്നും കണക്കാക്കുന്നു അതായത് യൂട്ടിലിറ്റി ആയ സ്മാൾ സിഗ്നൽ ഇൻക്രെമെന്റലിന് തുല്യം ആയിരിക്കും ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ മാത്രമേ ഇത് സാധുതയുള്ളൂ എന്നതാണ് കാരണം സ്മാൾ സിഗ്നൽ പാരാമീറ്ററുകൾ ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ അതെന്താണ് ആദ്യം നമുക്ക് ഒരു വോൾട്ടേജ് ഉറവിടം ഉണ്ടായിരിക്കണം അത് വർദ്ധനയുമായി മാത്രം യോജിക്കുന്നു അതായത് 100 mV sinωt 5 KΩ ലീനിയർ റെസിസ്റ്ററിന് തുല്യമായത് 5 KΩ ലീനിയർ റെസിസ്റ്ററാണ് ഇപ്പോൾ ഡയോഡ് ഒരു റെസിസ്റ്റർ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കും ഡയോഡിന്റെ പ്രവർത്തന പോയിന്റ് കറന്റ് 1mA ആണ് നിങ്ങൾ ഇവിടെ മാറ്റിസ്ഥാപിക്കുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് അതിനാൽ ഞാൻ കണക്കാക്കിയ മുൻ ഉദാഹരണത്തിൽ നിന്ന് ഡയോഡിന്റെ കറന്റ് 1mA ആയതിനാൽ ഇതൊരു 25 Ω റെസിസ്റ്ററാണെന്ന് നിങ്ങൾക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത് ഈ സർക്യൂട്ട് ഇൻക്രിമെന്റുകൾക്ക് മാത്രമേ സാധുതയുള്ളൂ വേണ്ടത്ര ചെറിയ ഇൻക്രിമെന്റുകൾക്ക് മാത്രമേ സാധുതയുള്ളൂ അതിനാൽ നിങ്ങൾക്ക് ടെയ്ലർ സീരീസിലെ ഉയർന്ന ഓർഡർ നിബന്ധനകൾ അവഗണിക്കാം അതിനാൽ നമുക്ക് ഇതിൽ നിന്ന് ഇൻക്രിമെന്റൽ VD അവിടെ നിന്ന് ഇൻക്രിമെന്റൽ ID മാത്രമേ ലഭിക്കൂ എന്നാൽ തീർച്ചയായും പ്രധാന കാര്യം ഇതാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് ലീനിയർ സർക്യൂട്ട് എല്ലാം കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് അതിനാൽ റെസിസ്റ്റീവ് ഡിവൈഡർ ഫോർമുലയിൽ നിന്ന് VD കണക്കാക്കും അത് Vs 252525k ആണ് ഇത് ചെയ്യാൻ ഞാൻ ഇത് ഏകദേശം കണക്കാക്കും ഡിനോമിനേറ്ററിലെ ഈ 25 Ω ഞാൻ അവഗണിക്കും അതിനാൽ ഇത് 0 5mV sinωt ആയി മാറും സമാനമായി ഈ ഭാഗം വീണ്ടും അവഗണിക്കുന്ന രണ്ട് റെസിസ്റ്ററുകളുടെ പരമ്പര സംയോജനത്താൽ വിഭജിക്കപ്പെടുന്ന സോഴ്സ് വോൾട്ടേജായി ഇൻക്രിമെന്റൽ കറന്റ് കണക്കാക്കാം ഇത് 20µA പാപത്തിന് ωt തുല്യമാണെന്ന് നമുക്ക് കാണാം അതിനാൽ ഇതാണ് ഇൻക്രിമെന്റൽ വോൾട്ടേജ് ഇതാണ് ഇൻക്രിമെന്റൽ കറന്റ് ഇവിടെ മൊത്തത്തിലുള്ള പരിഹാരം ലഭിക്കുന്നതിന് ഞങ്ങൾ ചെയ്യുന്നത് പ്രവർത്തന പോയിന്റ് അളവുകളും അത് ഇവയാണ് ഇവിടെ നിന്നുള്ള ഇൻക്രിമെന്റൽ അളവുകളും സംഗ്രഹിക്കുക അപ്പോൾ എനിക്ക് അവിടെ നിന്ന് എന്ത് ലഭിക്കും അതിനാൽ ഇവിടെ മൊത്തം വോൾട്ടേജ് VD എന്നത് പ്രവർത്തന പോയിന്റ് വോൾട്ടേജും ഇൻക്രിമെന്റൽ വോൾട്ടേജും ആയിരിക്കും ഇവ പ്രത്യേക വിശകലനത്തിൽ നിന്നാണ് വരുന്നത് അതുപോലെ ഇവിടെ ഈ കറന്റ് കൺട്രോൾ കറന്റ് 1mA ആയിരിക്കും അത് ഓപ്പറേറ്റിംഗ് പോയിന്റിലും 20µA sinωt ആണ് ഏതാണ് ഇൻക്രിമെന്റ് അതിനാൽ ഇത് സ്മാൾ സിഗ്നൽ ഇൻക്രിമെന്റൽ മോഡലിന്റെ പ്രയോജനമാണ് ഒരു നോൺ ലീനിയർ സമവാക്യം അല്ലെങ്കിൽ അതിന്റെ ചില ഏകദേശ പരിഹാരം ആവശ്യമായി വന്നേക്കാവുന്ന ചില മാർഗ്ഗങ്ങളിലൂടെ ഞങ്ങൾ ആദ്യം ഓപ്പറേറ്റിംഗ് പോയിന്റ് കണക്കാക്കുന്നു അതിനുശേഷം ഞങ്ങൾ സ്മാൾ സിഗ്നൽ ഇക്വലന്റ് പിക്ച്ചറിൽ നിന്ന് ഇൻക്രിമെന്റുകൾ മാത്രമേ കണക്കാക്കൂ അത് വളരെ എളുപ്പമാണ് കാരണം ഞങ്ങൾക്ക് ലീനിയർ സർക്യൂട്ട് വിശകലനം അറിയാം മൊത്തം പരിഹാരം ലഭിക്കുന്നതിനുള്ള ഇൻക്രിമെന്റൽ ക്വാണ്ടിറ്റിയുടെ പ്രവർത്തന പോയിന്റ് ഞങ്ങളുടെ പക്കലുണ്ട് ഇത് ഏകദേശ കണക്ക് മാത്രമാണ് കാരണം ഇൻക്രിമെന്റ് വേണ്ടത്ര ചെറുതായിരിക്കണം പക്ഷേ ഇത് വിവിധ സാഹചര്യങ്ങളിൽ നമ്മുടെ ഉദ്ദേശ്യങ്ങൾ പരിഹരിക്കുന്നു കൂടാതെ പരിഹരിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള നോൺ ലീനിയർ സർക്യൂട്ടുകളെക്കുറിച്ചുള്ള ചില ഉൾക്കാഴ്ച ഇത് ഞങ്ങളെ അനുവദിക്കുന്നു